സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുക എന്ന എൻറെ ഈ കോഴ്സിലേക്ക് എല്ലാവര്ക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇപ്പോൾ അഞ്ചാമത്തെ ആഴ്ച്ചയിൽ കോഴ്സിൻറെ മൂന്നാം യൂണിറ്റിലാണ് ഇരുപത്തി മൂന്നാമത്തെ ഈ അധ്യായത്തിൽ നമ്മൾ ഇംഗ്ലീഷ് നൈപുണ്യവുമായി ബന്ധപ്പെട്ട സാധാരണ എല്ലാവരും വരുത്തുന്ന തെറ്റുകളെക്കുറിച്ചു ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ യൂണിറ്റിലാണ് ഇന്നും ഞാൻ നിങ്ങൾക്ക് 20 വാക്യങ്ങൾ നൽകും അതും സാധാരണ അനുദിന ഉപയോഗത്തിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാവുന്നവയാണ് പക്ഷേ അതിനു മുമ്പ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് നോക്കാം നിങ്ങൾ നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് നോക്കി ഒപ്പം English the English resume résumé alone lonely childish childlike principle principal suit suite economic economical personal personnel alternate alternative there their ഇവിടെ ഉച്ചാരണം ഒരുപോലെയാണെങ്കിലും പദവിന്യാസത്തിൽ വ്യത്യാസമുണ്ട് എന്നിവയുടെ ശരിയായ ഉപയോഗവും അവ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ഉണ്ടാകാവുന്ന തെറ്റുകളും മനസ്സിലാക്കി അതോടൊപ്പം വീണ്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം പരിശോധിക്കാൻ ഞാൻ സാധാരണ തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള 20 വാക്കുകളും പ്രയോഗങ്ങളും നൽകുകയുണ്ടായി ഇവിടെ നമ്മൾ അവ എങ്ങനെയാണു ശരിയായി ഉപയോഗിക്കേണ്ടതെന്നു പഠിക്കും അതുകഴിഞ്ഞ് ഇതുപോലുള്ള 20 എണ്ണം കൂടി വാക്യങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയിൽ നൽകും എന്നിട്ട് അവയുടെ ശരിയായ ഉപയോഗം അതിനടുത്ത ഭാഗത്ത് നമ്മൾ കാണും ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ച് നിങ്ങൾ ഉത്തരങ്ങൾ കുറിച്ചു വച്ച പേപ്പറെടുത്ത് ശരിയുത്തരത്തിന് ഒരു മാർക്കും തെറ്റിപ്പോയതിന് പൂജ്യവും കൊടുക്കുക അവസാനം നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കു കാണാം ആദ്യത്തേത് Meet Madhav He's my elder brother ഇതാണ് ശരിയായ ഉത്തരം older oldst എന്നി പദങ്ങൾ പോലെ elder eldest എന്നിവയും ഒരേ അർത്ഥം ഉള്ള പദങ്ങളാണ് elder എന്നത് നാമത്തിനു മുന്പായി അതായത് bother sister എന്നിങ്ങനെയുള്ള നാമപദങ്ങൾക്കു മുന്പായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ elder എന്നുപയോഗിക്കുക ഒരു connecting verb നു ശേഷം ഒരു pradicative adjective എന്ന നിലയിൽ older oldest എന്നിവയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഇവിടെ is am അല്ലെങ്കിൽ were എന്നീ linking verbs നു ശേഷം വരുന്ന adjectiveനെയാണ് connecting adjective എന്ന് പറയുന്നത് ഉദാഹരണംത്തിന് Harish is older than me ഇവിടെ നമുക്ക് older എന്നുപയോഗിക്കാം കാരണം ഇത് is നു ശേഷം വരുന്നതാണ് ശരി നിങ്ങൾക്കിത് മനസിലായി എന്ന് കരുതുന്നു അടുത്തതിൻറെ ശരിയായ് ഉപയോഗം My sisters in law are coming for dinner tonight sister inlaws എന്നത് ശരിക്കും ഇന്ത്യൻ ഇംഗ്ലീഷാണ് അല്ലെങ്ങിൽ ഇന്ത്യനിസത്തിൻറെ ഭാഗമാണ് ഇത് വളരെ തെറ്റായ രീതിയിലാണ് എപ്പോഴും ഉപയോഗിച്ചു കാണുന്നതും sisters in law എന്ന ബഹുവചനരൂപം ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സഹോദരന്മാർ ഉള്ളപ്പോൾ അതിൻറെ ശരിയായ ബഹുവചനരൂപം brothers sisters in law എന്നാണു അല്ലാതെ in laws എന്നല്ല അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് brothers sisters എന്നാണ് മൂന്നത്തെതിന്റെ ശരിയായ ഉപയോഗം Anjali's niece has grown grown up എന്നതാണ് തെറ്റായ രൂപം growing up എന്നാൽ പ്രായ മാകുന്നു എന്നാണ് അർത്ഥം അതായത് ഒരാളുടെ ശരീരത്തിന്റെ നീളം വർദ്ധിക്കുന്നു എന്നു പറയുന്നതുപോലെ ശാരീരികമായ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് grown എന്നാണ് അല്ലാതെ grown up എന്നല്ല നാലാമത്തെതിൻറെ ശരിയുത്തരം I just got to know that Binayak is married to Supriya എന്നതാണ് അതുകൊണ്ട് I just got to know that Binayak has married with Supriya എന്നത് തെറ്റാണ് സാധാരണഗതിയിൽ Married എന്ന വാക്ക് to എന്നതിനോടാണ് ചേർന്നു പോകുന്നത് ഒരാൾ മറ്റൊരാളുമായി വിവാഹബന്ധത്തിലാണ് എന്ന് നിങ്ങൾക്കു പറയണമെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കേണ്ടതെങ്കിൽ is married to എന്ന് ഉപയോഗിക്കണം അഞ്ചാമത്തെത്തിന്റെ ശരിയുത്തരം They've got a beautiful house in the Hills എന്നാണ് അല്ലാതെ home in the hills എന്നല്ല homeഉം house ഉം തമിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്ങിൽ കെട്ടിടം ആണ് house അതേസമയം home എന്നത് നിങ്ങളുടെ സ്വന്തം നാട് എന്ന് നിങ്ങൾ പറയുന്ന അല്ലെങ്ങിൽ നിങ്ങൾ എവിടുത്തുകാരാണോ അതായത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ എവിടെയാണോ താസമിക്കുന്നത് ആ സ്ഥലം ആണ് അതായത് നിങ്ങളുടെ രക്തബന്ധം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബം എവിടെയാണോ എവിടെയായിരിക്കുമ്പോളാണോ നിങ്ങൾക്ക് ഗൃഹാതുരത്വം അനുഭവപ്പെടുന്നത് അതാണ് home അതുകൊണ്ട് ഒരു അപരിചിതമായ സ്ഥലത്തു ചെല്ലുമ്പോൾ പോലും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള പ്രയോഗമാണ് ഫീൽ അറ്റ് ഹോം എന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്വന്തം എന്ന പോലെ പെരുമാറുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ഒരു മടിയും വിചാരിക്കാതെ സ്വന്തം വീട്ടിൽ എന്ന പോലെ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കുക ആവശ്യമുള്ളതെന്തും എടുത്തോളുക ഇഷ്ടമുള്ളതൊക്കെ എടുത്തു കഴിക്കുക എന്നൊക്കെയാണ് Home എന്നത് ഒരു വൈകാരികമായ് പദമാണ് ഇത് എപ്പോഴും at എന്ന പ്രിപ്പോസിഷനോടു ചേർത്ത് അതിനു ശേഷമായാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക house ഒരു കെട്ടിടത്തെ സൂചിപ്പിക്കുന്നു അതേസമയം home എന്നത് സ്വന്തം എന്ന ഒരു വൈകാരിക അനുഭവത്തെ സൂചിപ്പിക്കുന്നു ഇത് തമ്മിൽ മാറിപ്പോകരുത് അടുത്തതിന്റെ ശരിയുതരം My brother lives abroad എന്നാണ് അല്ലാതെ lives in abroad എന്നല്ല കാരണം aboradനു മുമ്പ് പ്രിപ്പോസിഷൻസ് ചേർക്കാറില്ല പ്രത്യേകിച്ച് in അല്ലെങ്കിൽ at എന്നിവയ്ക്ക് മുമ്പ് ഏഴാമത്തേതും ഇംഗ്ലീഷിന്റെ ഇന്ത്യൻ യുസേജുമായി ബന്ധപ്പെട്ടതാണ് നല്ല ഇംഗ്ലീഷിൽ I've been brought up in a joint family എന്നത് തെറ്റാണ് മറിച്ച് I've been brought up extended family എന്നതാണ് ശരി കൂട്ട്കുടുംബം എന്ന അർത്ഥത്തിൽ in the family എന്ന് പ്രയോഗം ഇന്ത്യനിസത്തിന്റെ ഭാഗം ആണ് പക്ഷേ extended family എന്നതാണ് ശരിയായ രൂപം നിങ്ങൾ ഓക്സ്സ്ഫെഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാലും കൂട്ടു കുടുംബം എന്നതിന്റെ അതേ നിർവചനം ആണ് എക്സ്റ്റെൻറ്ഡെഡ് ഫാമിലിക്കും അതിൽ നൽകിയിരിക്കുന്നത് അതിന്റെ നിർവചനം നോക്കിയാൽ "ഒരു അണു കുടുംബം എന്നതിനുപരിയായി മുത്തച്ഛനെയും മുത്തശ്ശിയും മറ്റ് ബന്ധുക്കളെയും കൂടി ഉൾക്കൊള്ളുന്നത കുടുംബമാണ്" എക്സ്റ്റെൻറ്ഡെഡ് ഫാമിലി നിങ്ങളുടെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എക്സ്റ്റെൻറ്ഡെഡ് ഫാമിലി എന്ന പ്രയോഗം അത്ര പരിചിതമായിരിക്കില്ല പക്ഷേ ഇതാണ് ഇതിന്റെ ശരിയായ രൂപം എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും തിരുത്തുക എട്ടമാത്തെതിന്റെ ശരിയുത്തരം Dad and I have a lot of things in common എന്ന് മാത്രമാണ് between us എന്നില്ല സാധാരണ നമ്മൾ we have a lot of things in common between us എന്നാണ് പറയാറുള്ളത് അത് പക്ഷേ ഒരു ആവർത്തനമാണ് അതുകൊണ്ട് രണ്ട് വ്യക്തികൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ പ്രത്യേകതകളോ ഒരേ പോലെ ഉണ്ടെങ്കിൽ you have things in common എന്നതാണ് കൃത്യമായ പ്രയോഗം അവിടെ between us എന്ൻ ചേർക്കേണ്ടതില്ല ഒൻപതാമത്തെതിൽ I have good relations with my customers എന്ന് പറയുന്നിടത്ത് relations എന്നത് തെറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശരിയായ രൂപം I have a good relationship with my customers എന്നതാണ് സാധാരണയായി Relations എന്നത് ഉദാഹരണത്തിന് 'relations between India and Pakistan ' എന്ൻ പറയുന്നതുപോലെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് എന്നാൽ relationship എന്നത് ഉപയോഗിക്കുന്നത് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹം ആളുകൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് പത്താമാത്തെതിൽ I have to care for my aged parents എന്നത് തെറ്റായ രൂപമാണ് ശരിയായത് I have to care for my elderly parents എന്നാണ് Elderly parents എന്നതിൽ elderly എന്നത് അത്ര ഫോർമൽ അല്ലാത്തതും വളരെ പ്രായമുള്ളത് ബലഹീനം എന്നൊക്കെ അർത്ഥം വരുന്ന aged എന്നതിനേക്കാൾ മാന്യത കൂടിയതുമായ പ്രയോഗമാണ് കേൾക്കാൻ അത്ര സുഖമില്ലാത്ത ബലഹീനമായ പ്രായമായ അവസ്ഥയെയാണ് aged എന്നത് സൂചിപ്പിക്കുന്നത് പക്ഷേ elderly എന്നത് അല്പം കുലിനത്വവും മാന്യതയും ഒക്കെ ദ്യോദിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് അതുകൊണ്ട് aged നു പകരം elderaly ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പതിനൊന്നാമാത്തെതിന്റെ ഉത്തരം Is people dream of visiting the USA എന്നതാണ് ഇനിടെ dream to visit the USA എന്ന് പറയുന്നത് തെറ്റാണ് Dream of എന്നത് ഒരു ഫിക്സെഡ് എക്സ്പ്രഷൻ ആണ് അതിൻറെ അർത്ഥം എന്തോ നല്ലത് സംഭവിക്കുമെന്ന് പ്രീതീക്ഷിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഇവിടെ to ചേർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അടുത്തത് വളരെ ആകർഷകമായ ഒന്നാണ് നിങ്ങൾ മിക്കപ്പോഴും പറയാറുള്ളത് Please excuse me എന്നാണ് അല്ലെങ്കിൽ ഇനിയും ആരുടെയെങ്കിലും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി excuse me എന്ന് പറയും പക്ഷേ ശരിയായ രൂപം I'm sorry - I didn't mean to step on your shoes എന്നാണ് എന്തുകൊണ്ടാണിങ്ങനെ കാരണം excuse me എന്നുപയോഗിക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങളെത്തന്നെ ഒരു അപരിചിതന് പരിചയപ്പെടുത്തേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിക്കാൻ വേണ്ടി ഒക്കെയാണ് ഇവിടെ തിരക്കുപിടിച്ചു നിൽക്കുന്ന ഒരാളെ അല്പം ഒന്ന് ശല്യപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇടക്ക് കയറി ചോദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരാളുടെ കാലിൽ ചവിട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ excuse me എന്നല്ല പറയേണ്ടത് മറിച്ച് sorry എന്ന് തന്നെയാണ് പതിമൂന്ന് ഇവിടെ Ashok is good in cricket എന്ന് പറയുന്നത് തെറ്റാണ് ശരിയായ രൂപം Ashok is good at cricket എന്നാണ് ഇനി 'good at' എന്ന പദപ്രയോഗം ശ്രദ്ധിക്കുക ഇത് പലപ്പോഴും നിങ്ങൾ സാധാരണയായി ചെയ്യാറുള്ള ഒരു പ്രവർത്തിയുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് playing good at painting good at basketball good at hockey എന്നിങ്ങനെ എന്നിരുന്നാലും സ്കൂളിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളായ കണക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നവയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് good at good in ഇവ രണ്ടും ചേർക്കാം അതായത് somebody can be good in Mathematics as well as good at Mathematics so you have good at Physics good in Physics രണ്ടും ശരിയാണ് പലപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പതിനാലാമത്തേത് Many times I see my neighbour cycling to my office ഇതിൻറെ ശരിയായ രൂപം Very often I see my neighbour cycling to my office എന്നാണ് ആവർത്തിക്കപ്പെടുന്നതിന്റെ എണ്ണം എടുക്കാൻ കഴിയുമെങ്കിൽ many times എന്ന് ഉപയോഗിക്കുക എണ്ണം എടുക്കാൻ കഴിയാത്ത സാഹചര്യം ആണെങ്കിൽ often അല്ലെങ്കിൽ very often എന്ന് ഉപയോഗിക്കുക Very often എന്ന് ഉപയോഗിക്കുന്നത് ഒരു പ്രവർത്തി ഒത്തിരി തവണ നടക്കുന്നു എന്ന് കാണിക്കാനാണ് അതേസമയം often എന്ന് ഉപയോഗിക്കുന്നത് അത് സ്ഥിരമായി നടക്കുന്ന പ്രവർത്തിയാണ് എന്നു കാണിക്കാനാണ് ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത രാജ്യങ്ങളിൽ മിക്കവാറും വരുത്താറുള്ള മറ്റൊരു തെറ്റാണ് Last to last year I was in Bangalore നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് the year before last എന്നാണ് അതായത് the year before last I was in Bangalore Last to last എന്നത് ഇന്ത്യനിസത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ചക്കു മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിന് വർഷത്തിന് മുൻപ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ the year before last the week before last the month before last എന്നിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് Today morning I met Sheetal എന്നത് തെറ്റാണ് I met Sheetal this morning ആണ് ശരിയായ് ഉത്തരം ഇനി അതല്ല this morning എന്നെഴുതി ഒരു കോമ ഇട്ടതിനു ശേഷം I met Sheetal എന്നു പറഞ്ഞാലും അത് വേണമെങ്കിൽ ശരിയായി കണക്കാക്കാം പക്ഷേ ഏറ്റം ശരിയായ ഉത്തരം I met Sheetal this morning I met Sheetal this afternoon this evening എന്നിവയാണ് അതായത് നിങ്ങൾ സംസാരിക്കുന്ന അതേ ദിവസം നടന്ന ഒരു കാര്യത്തെ അല്ലെങ്ങിൽ അന്നു തന്നെ നടക്കാനിരിക്കുന്ന ഒരു കാര്യ ത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് അതിൻറെ ശരിയായ ഉപയോഗം അടുത്തത് I will see you after a week After week എന്നത് തെറ്റായ ഉപയോഗമാണ് കാരണം ഭാവിയിൽ എത്ര നാളുകൾക്കുള്ളിൽ ഒരു കാര്യം നടക്കും എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് in time എന്നാണ് അപ്പോൾ ശരിയായ ഉത്തരം I will see you in a week's time അതുപോലെ തന്നെ ഉള്ളതാണ് in a month's time in a year's time in a fortnight's time എന്നിവ പതിനെട്ട് നമ്മൾ മിക്കപ്പോറും തെറ്റിക്കുന്ന ഒരു പ്രയോഗമാണ് I didn't had my breakfast ഇതിൻറെ ശരിയായ് രൂപം I didn't have my breakfast എന്നാണ് കാരണം സാധാരണയായി ഒരു മെയിൻ വേർബിന്റെ പ്രസന്റ് ഫോം ആണ് did അല്ലെങ്ങിൽ did not didn't എന്നിവക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് അല്ലാതെ മെയിൻ വേർബിന്റെ പാസ്റ് ഫോം അല്ല ഇത് നമ്മൾക്ക് പലപ്പോഴും തെറ്റുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ I didn't go എന്നതിന് പകരം did not went എന്ന് ഉപയോഗിക്കാറുണ്ട് അതുപോലെ I didn't buy എന്നതിന് പകരം I didn't bought it എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം did നു ശേഷം എപ്പോഴും പ്രസന്റ് ഫോം ആണു വരുന്നത് അല്ലാതെ പാസ്റ് ഫോം അല്ല പത്തൊൻപത് We have lived here since three years ആളുകൾക്ക് പലപ്പോഴും മാറിപ്പോകുന്നതാണ് since for എന്നീ പ്രിപ്പൊസിഷൻസിൻറെ ഉപയോഗം ഇവിടെ ശരിയായ രൂപം we have lived here for three years എന്നതാണ് since this morning it has been raining heavily എന്നൊക്കെ പറയുന്നതുപോലെ ഒരു കാര്യം ആരംഭിച്ച സമയത്തെ സൂചിപ്പിക്കാനാണ് since ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് Since 1966 the price has been on the increase അതായത് ഇപ്പോഴും തുടരുന്ന ഒരു കാര്യം എപ്പോഴാണോ ആരംഭിച്ചത് ആ സമയത്തെ സൂചിപ്പിക്കാൻ സാധാരണ since എന്ന് ഉപയോഗിക്കുന്നു പക്ഷേ ഒരു കാലയളവിനെ അല്ലെങ്ങിൽ എത്ര നാളായി എന്നു സൂചിപ്പിക്കാൻ for ഉപയോഗിക്കും I have been staying here for 10 years കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം നമ്മൾ കണ്ടതാണ് I met Gauri three years before എന്നാൽ ഇതിൻറെ ശരിയായ് രൂപം I met Gauri three years ago എന്നാണ് Ago എന്നത് ഇതിനു മുന്പ് എത്ര നാൾ എന്ന കാലയളവിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് അതേ കാര്യത്തിനു തന്നെയാണ് before എന്നതും ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടുത്തെ വ്യത്യാസം ഇത് ഭൂതകാലത്തിലെ ഒരു പ്രത്യേക പോയിന്റ് മുതൽ ഉള്ള സമയത്തെ കുറിക്കാനാണ് ഉപയോഗിക്കുന്നത് We had read the book a year before it got the Booker prize ഇവിടെ ഇത് പാസ്റ് പെർഫെക്ട് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി പെട്ടന്നു തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാം പരിശോധിച്ച് സ്കോർ നൽകുക അപ്പോൾ ഇംഗ്ലീഷ് നൈപുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസിലാക്കാം സ്കോർ 20 ആണെങ്കിൽ ഔട്ട്സ്റ്റാന്റിംഗ് പതിനെട്ടോ പത്തൊൻപതോ ആണെങ്കിൽ എക്സലെന്റ്റ് 15 മുതൽ 17 വരെ ആണങ്കിൽ വളരെ നല്ലത് 12 മുതൽ 14 വരെ നല്ലത് പത്തോ പതിനൊന്നോ ആണെങ്കിൽ ശരാശരിക്കും മുകളിൽ 89 ശരാശരി നിലവാരം 6 മുതൽ 8 വരെ ശരാശരിയിലും താഴെ 4 മുതൽ 7 വരെ മോശം പൂജ്യത്തിനും മൂന്നിനും ഇടക്കാണെങ്കിൽ വളരെ മോശം പ്രകടനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ സ്കോർ കുറഞ്ഞു പോയി എന്നു കരുതി ആരും നിരാശരാകേണ്ട കാര്യം ഇല്ല കാരണം നമ്മൾ ഇത് തുടങ്ങിയതേയുള്ളൂ അതുകൊണ്ട് വിഷമിക്കേണ്ട ഞാൻ നിങ്ങക്ക് പഠനത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്ന പുസ്തകങ്ങളും മറ്റും നോക്കി സാധാരണ അനുദിന ഉപയോഗത്തിൽ ഉണ്ടാകാവുന്ന തെറ്റുകൾ ഏതെന്നു മനസിലാക്കി പഠിക്കുക മറ്റുള്ളവരുടെ സംസാരം നിരീക്ഷിക്കുക എന്നിട്ട് നിങ്ങളുടെ സംസാരം എങ്ങനെയുണ്ട് എന്ന് നോക്കുക മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ അധികാരി ആണെങ്കിലും ശരി വരുത്തുന്ന തെറ്റുകൾ മനസിലാക്കുക കാരണം ഭാഷയുടെയും ആശയവിനിമയത്തിന്റെയും തലത്തിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുകൾ പോലും ഇതുപോലുള്ള തെറ്റുകൾ വരുത്താം അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളെയും മറ്റുള്ളവരെയും തിരുത്തുക ഇന്നത്തെ പാഠത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം ഇവിടെയും ഞാൻ നിങ്ങൾക്ക് തെറ്റായ പ്രയോഗങ്ങൾ ഉള്ള 20 വാക്യങ്ങൾ തരും അതിലെ തെറ്റു തിരുത്തുക ശരിയുത്തരം നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്നതായിരിക്കും അപ്പോൾ അടിവരയിട്ടിരിക്കുന്ന വാക്കുകളുടെ ശരിയായ രൂപം കണ്ടെത്തി നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം പരിശോധിക്കുക ഇവയെല്ലാം സാധാരണ ഉപയോഗിക്കുന്നതായതുകൊണ്ട് തെറ്റുണ്ടെന്ന് പെട്ടന്നു തോന്നി എന്നു വരില്ല ആദ്യത്തെത് I passed out in 2014 from my university ഇതിൽ തെറ്റു എന്താണെന്നും ഇതിൻറെ ശരിയായ രൂപം ഏതാണെന്നും കണ്ടെത്തുക രണ്ടാമത്തേത് I couldn't catch my teacher's English at all ഇത് വടക്കേ ഇന്ത്യയിലും മറ്റും ഹിന്ദി ഭാഷ സംസാരിക്കുന്നവർ സാധാരണ പറയുന്ന ഒരു രീതിയാണ് എന്താണ് ഇതിൻറെ ശരിയായ രൂപം എന്ന് കണ്ടു പിടിക്കുക മൂന്ൻ I want to learn English to go ahead in my career go ahead എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായ ഭാഗം നാല് Please write your name on the top of the answer script on the top of എന്നതാണ് തെറ്റുള്ളതായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാമത്തെത് നമൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് I'll call you again in twenty minutes അടിവരയിട്ടിരിക്കുന്ന ഭാഗം call you again ശരിയായത് കണ്ടുപിടിക്കുക ആറ് The bus stop is in front of my house ഇതും നമ്മുടെ സാധാരണ ഉപയോഗത്തിൽ ഉള്ളതാണ് in front of എന്നതിന്റെ ഉപയോഗത്തിൽ ഉള്ള തെറ്റ് കണ്ടു പിടിക്കുക ഏഴ് The climate in Delhi is quite humid this month ഇതും ഒത്തിരിപ്പേർ സാധാരണ വരുത്തുന്ന തെറ്റാണ് എന്താണ് തെറ്റ് എന്നു കണ്ടുപിടിക്കുക എട്ട് ഇതും സാധാരണ വരുത്തുന്ന ഒരു തെറ്റാണ് I'm coming from India ഇവിടെ അടിവരയിട്ടിരിക്കുന്ന ഭാഗം coming from എന്നതാണ് ഒൻപത് Nainital is all about 6000 feet over sea level പത്ത് I put a plastic cover above the sofa ഇവിടെയും അടിവരയിട്ടിരിക്കുന്ന വാക്ക് above ആണ് ശരിയായത് കണ്ടുപിടിക്കുക The earthquake that shook Latur was eight point five on the Richter scale ഇവിടെ earthquakeനു ശേഷവും Latur എന്നതു കഴിഞ്ഞും നൽകിയിരിക്കുന്ന കോമ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഉത്തരത്തെക്കുറിച്ച് ചെറിയ ഒരു സൂചന തരും കാരണം അതു രണ്ടും ഒരു ബ്രാക്കറ്റ് പോലെ വർത്തിക്കുന്നു അതായത് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് ഒരു അധിക വിവരണമാണ് The judges gave awards to all poems which showed originality ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് Which എന്നതാണ് ഇതിൻറെ ഉപയോഗത്തിലുള്ള തെറ്റു ഏതെന്നു കണ്ടുപിടിക്കുക She lacks in confidence അടിവരയിട്ടിരിക്കുന്നത് lacks in ശരിയായ രൂപം കണ്ടു പിടിക്കുക പതിനാല് Where is my belongings Is ആണ് അടിവരയിട്ടിരിക്കുന്നത് ശരിയായ പ്രയോഗം ഏത് പതിനഞ്ചു Please give me blue pen നിങ്ങളിൽ മിക്കവാറും പേർക്ക് ഉത്തരം അറിയാമായിരിക്കും ഇവടെ എന്തോ കൊടുത്തിട്ടില്ല അത് ഏതാണ് മിക്കവാറും അത് blue pen എന്നതിനു മുന്പ് ചേർക്കേണ്ടതാണ് ഞാൻ ഒരു സൂചന തന്നു എന്നു മാത്രം He is a honest police officer ഇവിടെ a honest എന്നതാണ് അടിവരയിട്ടിരിക്കുന്നത് ശരിയായത് കണ്ടുപിടിക്കുക Will I drop you to the station അടിവരയിട്ടിരിക്കുന്ന will എന്നതിൻറെ ഉപയോഗത്തിൽ എന്താണ് തെറ്റ് എന്താണ് എന്നറിയാമെങ്കിൽ അത് കുറിച്ചുവെക്കുക ഇവിടെയും കുട്ടികളും നോൺ നേറ്റിവ് ഇംഗ്ലീഷ് സ്പിക്കെഴ്സും സാധാരണയായി വരുത്തുന്ന ഒരു തെറ്റാണ് Despite of leaving station she had made all the arrangements for the conference അടിവരയിട്ടിരിക്കുന്നത് Despite of ആണ് ശരിയായത് കണ്ടെത്തുക You can travel on bus to reach Dehradun travel on എന്നതിന് അടിവരയിട്ടിരിക്കുന്നു അത് തെറ്റാണോ അതുകൊണ്ടാണല്ലോ അങ്ങനെ കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻറെ ശരിയായ രൂപം ഏതാണ് You were talking to Rajesh You were എന്നതാണ് ഇവിടെ അടിയരയിട്ടിരിക്കുന്നത് ഇത് പക്ഷേ പരിചിതമായ ഒരു പ്രയോഗമാണ് എന്താണ് ഇതിലെ തെറ്റ് ഇതിൻറെ ശരിയുത്തരം കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നോക്കി അത് പരിശോധിക്കാം എന്നിട്ട് അല്പം കൂടി ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം ഇവിടെ ഇംഗ്ലീഷിന്റെ അനുദിന ഉപയോഗത്തിൽ നമ്മൾ സാധാരണ വരുത്തുന്ന തെറ്റുകളെക്കുറിച്ച് ഒരു അവബോധം തരാനാണ് ഞാൻ ശ്രമിച്ചത് ഒപ്പം അവയുടെ ശരിയായ പ്രയോഗങ്ങളെക്കുറിച്ചറിയാനുള്ള ഒരു ദാഹം നിങ്ങളിൽ ഉണർത്തുകയും അങ്ങനെ ഇംഗ്ലീഷ് നൈപുണ്യത്തിന്റെ തലത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ അറിവ് നേടിത്തരുകയും ചെയ്യുക എന്നതും എന്റെ ലക്ഷ്യമായിരുന്നു എന്തും പഠിക്കാൻഉള്ള പ്രജോദനം നൽകുന്ന ഒരു ചിന്തയോടെ ഞാൻ അവസാനിപ്പിക്കാം ഇത് ഭാഷാ പഠനത്തിനു മാത്രമായി ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് സാറാ ഗ്ലാഡ്വെല്ലിന്റെ വാക്കുകളാണ് അവർ പറയുന്നു "നിങ്ങക്കു പറ്റുന്നതെല്ലാം പഠിക്കുക എന്തും ആരിൽ നിന്നും പഠിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു അവസരം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും " നിങ്ങളെക്കൊണ്ടു സാധിക്കുനതൊക്കെ പഠിക്കുക അത് ഭാഷയാകട്ടെ മറ്റെന്തും ആയികൊള്ളട്ടെ ഭാഷയെ സംബന്ധിച്ച അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പഠിക്കുക ഏതു സമയത്തും ആരിൽ നിന്നും പഠിക്കുക നിങ്ങൾ അതിനെയോർത്തു സന്തോഷിക്കുന്ന ഒരു സമയം തീർച്ചയായും ഉണ്ടാകും ഈ ഉദ്ധരണിയിൽ പറഞ്ഞിരിക്കുന്നതെന്തെനാൽ നിങ്ങൾ എന്ത് പഠിച്ചാലും പഠിക്കാനായി വിനിയോഗിച്ച സമയത്തെയോർത്ത് അത് വെറുതെയായിപ്പോയി എന്ന് ഒരിക്കലും നിങ്ങൾക്കു പരിതപിക്കേണ്ടി വരില്ല ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ആ സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായില്ലെങ്കിലും ഒരു സമയം തീർച്ചയായും അവരും അന്ന് നിങ്ങൾ അതിനായി ചിലവഴിച്ച സമയത്തെ ഓർത്ത് സന്തോഷിക്കും ഇത് നമ്മുടെ ഈ കോഴ്സിൻറെ കാര്യത്തിലും ശരിയാണ് ഭാഷ പഠിക്കാൻ എത്ര മാത്രം സമയം മാറ്റി വക്കാൻ പറ്റുമോ അത്രയും സമയം മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് ഇത് ജീവിത്തിൽ പ്രയോജനം ചെയ്യും മറ്റൊരു കാര്യം വീഡിയോയിലൂടെ ഓൺലൈനിൽ ഇത്തരം കോഴ്സുകൾ നൽകുകയാണ് ഇവിടെ ഒരു ക്ളാസ്മുറിയുടെ അതിർവരമ്പുകൾ ഇല്ല നിങ്ങൾ ഒരു പ്രത്യേക സമയം നോക്കി ക്ലാസ്സിൽ വന്നിരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു ക്ലാസിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ഇവ നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്തു വച്ച് ഏതു സമയത്തുവേണമെങ്കിലും കാണാം ഇത് വെളുപ്പിനെ കാണുന്ന ചിലരുണ്ട് ചിലർ രാത്രി വൈകി ഇത് ഉപയോഗിക്കുന്നു ഇനിയും ചിലർ ഉച്ചകഴിഞ്ഞുള്ള സമയത്തും വേറെ ചിലർ ആഴ്ചയുടെ അന്ത്യത്തിൽ മാത്രവും കാണുന്നു അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതു സമയത്തും ഇത് നിങ്ങൾക്കു ലഭ്യമാണ് നിങ്ങൾക്ക് ഒരു കോളേജിലോ സ്കൂളിലോ പോകേണ്ട ബെല്ലടിക്കുമ്പോൾ പേടിച്ചു ഓടി ക്ലാസ്സിൽ കയറണ്ട ഇവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്ങിൽ നിങ്ങൾക്ക് അത് മാറ്റിവച്ചു മറ്റ് കോഴ്സുകളിലെക്ക് പോകാം ആരിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാം ലോത്തിന്റെ ഏതു ഭാഗത്തു നിന്നും രാജ്യത്തെവിടെ നിന്നും നിങ്ങൾക്ക് എന്തും ആരിൽ നിന്നും പഠിക്കാം അതാണ് ഈ MOOC കോഴ്സുകളുടെ ലക്ഷ്യം തന്നെ അതുകൊണ്ട് നിങ്ങളെ തടസപ്പെടുത്തുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നിങ്ങക്കു മുൻപിലുള്ള നിരവധിയായ അവസരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഇത്രെയും അവസരങ്ങൾ നിങ്ങൾക്കു മുൻപിൽ ഉള്ളപ്പോൾ അതിൽ നിന്ന് പരമാവധി പ്രയോജനം എടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് സാധിക്കുന്നത്രയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം വെറും കൂട്ടിവെക്കലുകൾ നിങ്ങളെ വിജ്ഞാനത്തിലേക്കു നയിക്കില്ല ഈ സമ്പാദനത്തിൽ നിങ്ങൾ ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട് ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിന്താധാരകളിൽ മാറ്റം വരുത്തി അവയെ കൂടുതൽ വിശാലമാക്കും അതുകൊണ്ട് ഈ വിജ്ഞാന സമ്പാദ്യം നമുക്കു ഗുണം ചെയ്യുന്ന കാര്യം ആണ് മറ്റൊരു കാര്യം ഉള്ളത് കുറെ കഴിയുമ്പോൾ ഇവയൊക്കെ ചെയ്യാനുള്ള നിങ്ങളുടെ താല്പര്യം കുറയും മനശക്തി ക്ഷയിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം അതായത് നിങ്ങൾക്ക് ആകുന്ന സമയത്ത് നിങ്ങൾ ധാരാളം അറിവു സംബാധിച്ചു എന്നതിൽ ഞാൻ ഇവിടെ നിങ്ങളോട് വീണ്ടും പറയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ച പുസ്തകങ്ങൾ വായിക്കുക പ്രത്യേകിച്ചു ഡോ സൌമ്യ ശർമ്മയുടെത് എഴുത്തുകാരിയുടെ അനുവാദത്തോടെ Common Errors in English എന്ന ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ ധാരാളം ഉദ്ധരണികൾ എടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിന് അധികം വിലയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ കുറച്ചു ഉദാഹരണങ്ങൾ മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ ഇനിയും ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് ആ ബുക്കിലുള്ള ഉദാഹരണങ്ങൾ മുഴുവൻ നോക്കി പഠിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും ഇത് ഈ കോഴ്സിൻറെ ഒരു ഭാഗം മാത്രമാണ് ഇംഗ്ലീഷ് നൈപുണ്യം മാത്രം ഉൾക്കൊള്ളിച്ചു ഒരു കോഴ്സ് നടത്താം പക്ഷേ അത് ഈ ഘട്ടത്തിലല്ല അല്പം കൂട് കഴിഞ്ഞ് ഈ കോഴ്സിൻറെ അടിസ്ഥാന ലക്ഷ്യം സോഫ്റ്റ് സ്കിൽസ് മെച്ചപ്പെടുത്തുക എന്നതാണ് അതിൽത്തന്നെ ഇംഗ്ലീഷിന്റെ ഉപയോഗത്തിൽ സാധാരണ വരാറുള്ള തെറ്റുകളെക്കുറിച്ചു മനസിലാക്കുക ഏതായാലും 20 വാക്യങ്ങൾ പരിശോധിച്ച് ശരിയുത്തരം കണ്ടെത്താൻ നിങ്ങൾക്കു പറ്റും എന്ന് ഞാൻ കരുതുന്നു ഉത്തരങ്ങളും അവയുടെ സ്കോറും അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും അതുവരെ ഈ വീഡിയോ കണ്ടതിനു നന്ദി നല്ല ദിനം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ